രണ്ടാം ആഴ്ചയിലെ നാലാം മോഡ്യൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ മോഡ്യൂളിൽ മുഖഭാവങ്ങളെയും അവയുടെ പ്രാധാന്യം അടിസ്ഥാന മുഖഭാവങ്ങളെയും ഈ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ഗവേഷണങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെയും ആണ് നമ്മൾ കാണുവാൻ പോകുന്നത് മുഖമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാവപ്രധാനമായ ഭാഗം മുഖം മനസ്സിൻറെ കണ്ണാടി ആണെന്ന് അറിയപ്പെടുന്നതോടൊപ്പം മുഖം നമ്മുടെ വികാരങ്ങൾ വളരെ പ്രകടമായിത്തന്നെ വെളിവാക്കുന്നു എന്നും നമ്മുടെ മുഖഭാവങ്ങൾ സാമൂഹികമായ വിവരങ്ങൾ കൈമാറുക ആശയവിനിമയം നടത്തുക എന്നീ അതിപ്രധാനമായ സാമൂഹിക കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നു എന്നും പൊതുവെ കരുതപ്പെടുന്നു ഇത് മനുഷ്യ സമൂഹത്തിൽ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു അടിസ്ഥാന കർത്തവ്യമാണ് എനിക്കിവിടെ റേച്ചൽ ജാക്ക് പറഞ്ഞത് പരാമർശിക്കേണ്ടിയിരിക്കുന്നു മുഖഭാവങ്ങൾ ഒരേസമയം അത്യാകർഷകവും ശാസ്ത്രീയ പഠന സാദ്ധ്യതകൾ ഉള്ളതുമായ ഒരു മേഖലയായി തത്വചിന്തകർ നരവംശശാസ്ത്രജ്ഞർ മനഃശാസ്ത്രജ്ഞർ ജീവശാത്രജ്ഞർ എന്നിവരുടെ ഇടയിൽ ഒരു നൂറ്റാണ്ടിലേറെയായി നിലനിൽക്കുന്നു വികാരങ്ങളെക്കുറിച്ചുള്ള പരസ്പരധാരണയിലാണ് നമ്മുടെ സാമൂഹിക ഇടപെടലുകൾ നിലനിൽക്കുന്നത് എന്നതിനാൽ വികാരങ്ങളെ മനസിലാക്കാതെ നമുക്ക് പരസ്പരം ഇടപെടുവാനോ ഒരു സമൂഹം എന്ന നിലയിൽ സഹവർത്തിത്വം പുലർത്താനോ സാധിക്കുകയില്ല ഈ പ്രഥമവും അടിസ്ഥാനപരവുമായ കർത്തവ്യം നിർവഹിക്കുന്നത് സംവേദനം ചെയ്യുവാനുള്ള എന്നാൽ ചില സമയങ്ങളിൽ ഒളിച്ചുവെക്കുവാനുമുള്ള നമ്മുടെ യഥാർത്ഥ ആശയങ്ങളുടെയും വിവരങ്ങളുടെയും വാഹകരായ മുഖഭാവങ്ങളുടെ സഹായത്തോടെയാണ് മുഖഭാവങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ അന്വേഷണങ്ങളെക്കുറിച്ചു പരാമർശിക്കുമ്പോൾ മനുഷ്യ വികാരങ്ങളുടെ സാർവത്രികതയെക്കുറിച്ചുള്ള ആദ്യ പരാമർശം നടത്തിയത് ചാൾസ് ഡാർവിൻ എന്ന കൃതിയിൽ മനുഷ്യരുടെ മുഖങ്ങളിലെ വികാരങ്ങളുടെ ആവിഷ്കരണം വ്യത്യസ്ത സമൂഹങ്ങളിൽ സാർവത്രികമായിരിക്കും എന്ന തൻ്റെ ആശയം അദ്ദേഹം മുന്നോട്ടുവെക്കുകയുണ്ടായി പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ചുള്ള തൻ്റെ മൂന്നാമത്തെ മഹത്തായ പുസ്തകത്തിൽ ഡാർവിൻ ഇക്കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട് 1859ൽ പ്രസിദ്ധീകരിച്ച ജീവിവർഗങ്ങളുടെ ഉല്പത്തി എന്ന കൃതിയിൽ മനുഷ്യരുടെ ചില സ്വഭാവ സവിശേഷതകളുടെയും പെരുമാറ്റങ്ങളുടെയും ഉത്ഭവം മൃഗങ്ങളിൽ നിന്നുമാകുന്നതിനെക്കുറിച്ചു ഡാർവിൻ സമഗ്രമായി അന്വേഷിക്കുന്നു ഉദാഹരണത്തിന് ആശ്ചര്യം ഉണ്ടാകുമ്പോൾ പുരികങ്ങൾ ഉയർത്തുന്നതും അമ്പരപ്പിനോടൊപ്പം മുഖം വിവരണമാകുന്നത് തുടങ്ങിയവ ഒരു ശ്രദ്ധേയമായ കാര്യം ഈ പുസ്തകം തയ്യാറാക്കുന്നവേളയിൽ പ്രസിദ്ധീകരണങ്ങളിലൂടെയും മനശാത്രപരമായ തത്വങ്ങൾ അന്വേഷിച്ചുറപ്പുവരുത്തുക തുടങ്ങി ഡാർവിൻ പലതരം സങ്കേതങ്ങൾ പരീക്ഷിച്ചിരുന്നു പുസ്തകപ്രസിദ്ധീകരണത്തിനു മുന്നോടിയായുള്ള പ്രാരംഭ ഗവേഷണത്തിനിടയിൽ ഒരു ചോദ്യാവലിയും അദ്ദേഹം പ്രചരിപ്പിച്ചിരുന്നു ഈ പുസ്തകത്തിൽ ചില ഫോട്ടോഗ്രാഫുകൾ ഉൾപെടുത്താൻ അദ്ദേഹം നിർബന്ധം പിടിച്ചിരുന്നു എന്നതാണ് ഇതിനെ സംബന്ധിച്ച മറ്റൊരു രസകരമായ സംഗതി ഡാർവിൻ ഈ പുസ്തകത്തിൻ്റെ പണി തുടങ്ങുന്ന കാലത്തു ഫോട്ടോഗ്രഫി എന്ന കല അതിൻ്റെ ശൈശവദിശയിൽ ആയിരുന്നുവെന്നത് പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ് പ്രസിദ്ധീകരണ ശേഷം വരുന്ന ചില പതിറ്റാണ്ടുകളിലാണ് ഇന്ന് നാം ഫോട്ടഗ്രാഫി എന്ന് വിളിക്കുന്ന കലയുടെ അടിസ്ഥാന തത്വങ്ങൾ ലോകം പരീക്ഷിച്ചു തുടങ്ങിയതുതന്നെ പുസ്തകത്തിലെ ഫോട്ടോഗ്രാഫുകൾ വായനക്കാർ നല്ല രീതിയിൽ സ്വീകരിക്കില്ല എന്ന നിലപാടുണ്ടായിരുന്ന പ്രസാധകർ ഡാർവിനോട് അവ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടു എന്നിരുന്നാലും ഫോട്ടോഗ്രാഫുകൾ എന്തായാലും ഉൾപ്പെടുത്തണം എന്ന് ഡാർവിൻ നിർബന്ധം പിടിച്ചു ഈ സ്ലൈഡിൽ നിങ്ങൾ കാണുന്ന ചിത്രങ്ങൾ ഡാർവിൻ്റെ പുസ്തകത്തിൽ വ്യസനത്തെ അടയാളപ്പെടുത്തുന്നവയാണ് അദ്ദേഹം പുസ്തകത്തിൽ ഉപയോഗിച്ച മൂല ചിത്രങ്ങൾ തന്നെയാണ് ഇവ മാനസികാവസ്ഥകൾ ശരീരചലനത്തിൻ്റെ നാഡീശാസ്ത്രപരമായ വ്യവസ്ഥിതിയുമായി ബന്ധപ്പെടുത്തിരിക്കുന്നു എന്നതാണ് ഈ പുസ്തകത്തിൽ ഡാർവിൻ പ്രസ്താവിക്കുന്ന ഏറ്റവും പ്രധാനമായ വാദം പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു മനുഷ്യരായാലും മൃഗങ്ങളായാലും വ്യത്യസ്ത വർഗ്ഗങ്ങളിൽപ്പെടുന്ന മുതിർന്നവരും കുട്ടികളും സമാന മാനസികാവസ്ഥകൾ പ്രകടിപ്പിക്കാൻ സമാനമായ അംഗചലനങ്ങൾ ഉപയോഗിക്കുന്നു എന്നാൽ സമകാലീനരായ ശാസ്ത്രജ്ഞർ മാത്രമല്ല ഇരുപതാം നൂറ്റാണ്ടിൽ പ്രവർത്തിച്ചിരുന്ന നരവംശശാസ്ത്രജ്ഞർ പോലും ഈ വാദം തള്ളിക്കളഞ്ഞു എന്ന് നമുക്ക് കാണാനാകും ഈ വാദം തള്ളിക്കളഞ്ഞ പ്രധാനികളിൽ മനുഷ്യരുടെ പെരുമാറ്റം സംബന്ധിച്ച വഴിത്തിരിവാകുന്ന പല ഗവേഷണങ്ങൾ നടത്തിയ മാർഗരറ്റ് മീഡിനെക്കുറിച്ചു പറഞ്ഞേ മതിയാവൂ ഈ ആശയം പക്ഷെ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പാതിയിൽ പോൾ എക്മാനും കൂട്ടരും ഏറ്റെടുത്തു നിരവധി മുഖഭാവങ്ങളുടെ സാർവത്രികതയ്ക്ക് വിപുലമായ പിന്തുണ ഉണ്ടാക്കുവാൻ എക്മാന് സാധിച്ചു അതിനോടൊപ്പം സാർവത്രികം എന്ന് പറയാവുന്ന ഈ ഭാവങ്ങൾ ആനന്ദം രോഷം ഭയം വ്യസനം ജുഗുപ്സ അവജ്ഞ തുടങ്ങിയ ചില പ്രത്യേക വികാരങ്ങളുമായി ബന്ധപ്പെട്ടവയാണ് എന്നും അദ്ദേഹം കണ്ടെത്തിയിരുന്നു സാംസാകാരികമായ വ്യതിയാനങ്ങൾ ഉണ്ടാകുവാനുള്ള കരണങ്ങളെക്കുറിച്ചും അദ്ദേഹം പഠിക്കുകയുണ്ടായി വ്യത്യസ്ത സംസകാരങ്ങൾക്കിടയിൽ മുഖഭാവങ്ങളിൽ പ്രത്യക്ഷമായി കാണപ്പെടുന്ന പല വ്യത്യാസങ്ങളും സാന്ദർഭികമായി കരുതേണ്ടതാണെന്നും അദ്ദേഹം വാദിച്ചു Paul Ekman had initially referred to six basic emotions ആരംഭത്തിൽ പോൾ എക്മാൻ ആറ് അടിസ്ഥാന വികാരങ്ങളെയാണ് പരാമർശിച്ചിരുന്നത് എന്നാൽ പിന്നീട് അദ്ദേഹം തൻ്റെ ഗവേഷണം പുതുക്കുകയും പൊതുവായ ഏഴ് സാർവത്രിക മുഖഭാവങ്ങൾ ഉണ്ട് എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു എന്നിട്ട് പിന്നീട് അതിൻ്റെ കൂടെ അവജ്ഞയും ചേർക്കുകയായിരുന്നു സാർവത്രിക അടിസ്ഥാന വികാരങ്ങൾ ആറ് ആണോ ഏഴ് ആണോ എന്ന ആശയക്കുഴപ്പം കുറച്ചധികനാൾ നീണ്ട്നിന്നുവെങ്കിലും പോൾ എക്മാൻ സ്വയം തൻ്റെ പ്രാഥമിക പഠനം തിരുത്തുകയുണ്ടായി ഈ അടിസ്ഥാന ഭാവങ്ങൾ വേർതിരിച്ചറിയാനാവുന്ന പേശീപ്രവർത്തന മാതൃകകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ മുഖഭാവങ്ങൾ നമ്മുടെ ശബ്ദത്തിൻ്റെ സ്വരപ്രമാണവുമായി മിക്കവാറും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു തങ്ങളുടെ പഠനങ്ങളിൽ എക്മാനും കൂട്ടരും പല സംസ്കാരങ്ങളിൽ നിന്നുള്ള പല തരം ആളുകൾക്ക് ആറ് അടിസ്ഥാന വികാരങ്ങൾ അടങ്ങുന്ന ഒരു കൂട്ടം ഫോട്ടോഗ്രാഫുകൾ കൊടുത്തു പാശ്ചാത്യം ഏഷ്യൻ ഗോത്ര സംസ്കൃതി മുതലായ വ്യത്യസ്ത സാംസ്കാരിക ചുറ്റുപാടിൽ നിന്നുമുള്ള മനുഷ്യർ വളരെ കൃത്യമായി ഈ ആറ് അടിസ്ഥാന വികാരങ്ങളും തിരിച്ചറിഞ്ഞു എന്ന് ഗവേഷകർ കണ്ടെത്തി മുഖഭാവങ്ങളിൽ ഒരു സർവത്രികത എന്ന് അനുമാനിക്കുന്നതിലേക്ക് ഈ കണ്ടെത്തൽ എക്മാനെ നയിച്ചു എന്നിരുന്നാലുംഈ സാർവത്രികതാ വാദത്തിൻ്റെ ന്യായവും സാധുതയും സംബന്ധിച്ചുള്ള നിരവധി തർക്കങ്ങൾ നിലനിന്നിരുന്നു അവയെക്കുറിച്ചു നമ്മടെ തുടർന്നുള്ള ചർച്ചകളിൽ പ്രതിപാദിക്കുന്നതായിരിക്കും സാക്ഷരസംസ്കാരങ്ങളിലെയും അക്ഷരങ്ങൾ ഉണ്ടാകുന്നതിനു മുൻപുള്ള സംസ്കാരങ്ങളിലെയും മനുഷ്യർക്ക് മനുഷ്യൻ്റെ മുഖത്തുള്ള വികാരങ്ങൾ നിർണയിക്കുന്നതിൽ സമാനതകൾ ഉണ്ടായിരുന്നുവെന്ന് സർവ്വകലാശാലകൾ കേന്ദ്രീകരിച്ചുള്ള പോൾ എക്മാൻ്റെയും കൂട്ടരുടേയും കൂടാതെ കരോൾ ഇസാർഡിൻ്റെയും എന്നിവർ 1970കളിൽ ആരംഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മുന്നേറ്റങ്ങളുടെ ചരിത്രത്തെക്കുറിച്ചു സംക്ഷിപ്തമായി എഴുതി എക്മാൻ്റെ സാർവത്രികതാവാദങ്ങളെ പിന്തുണച്ചിട്ടുണ്ട് വികാരോദ്ദീപകമായ ചലച്ചിത്രഭാഗങ്ങളോട് വിവിധ സംസ്കാരങ്ങളിലുള്ള വ്യക്തികളിൽ ഒരേ തരത്തിലുള്ള മുഖഭാവങ്ങൾ നൈസർഗികമായി വെളിവായി എന്ന് കുറിച്ച ഫ്രീസനെ അവർ ഉദ്ധരിച്ചിട്ടുണ്ട് ഡേവിഡ് മാറ്റ്സുമോട്ടോ ഹ്യി സുങ് ഹ്വാങ് എന്നിവർ നടത്തിയ പഠനത്തിൽ അവർ ഇപ്രകാരം പറയുന്നു അന്ന് മുതൽ മുഖഭാവങ്ങൾ നിർണയിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മുപ്പത്തിലധികം പഠനങ്ങൾ മുഖത്ത് പ്രതിഫലിക്കുന്ന വികാരങ്ങൾ സാർവത്രികമായി മനസ്സിലാക്കപ്പെടുന്നു എന്ന കണ്ടെത്തൽ ആവർത്തിക്കുന്നു " മുഖത്തു വരുന്ന വികാരങ്ങളെയും വാക്കലുള്ളതല്ലാത്തതായ വികാരപ്രകടനങ്ങളെയും സംബന്ധിക്കുന്ന വിവരങ്ങളുടെ 168 സെറ്റുകൾ പരിശോധിച്ചതിൽ നിന്ന് ലഭിച്ച ഫലങ്ങൾ വികാരങ്ങൾ തിരിച്ചറിയുന്നതിൽ വെറും ആകസ്മികതയ്ക്കും മുകളിൽ നിലനിൽക്കുന്ന ഒരു സാർവത്രികതയെ സൂചിപ്പിക്കുന്നു എഴുപത്തിയഞ്ചിന് മുകളിൽ എണ്ണമുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതേ മുഖഭാവങ്ങൾ തന്നെയാണ് നൈസർഗികമായ വികാരപ്രകടനം ഉണ്ടാകുമ്പോൾ ഉപാദിപ്പിക്കപ്പെടുന്നത് എന്നാണ് അങ്ങനെ വരുമ്പോൾ ഈ പഠനങ്ങൾ പോൾ ഏകമന്റേയും സംഘത്തിന്റെയും കണ്ടെത്തലുകളേയും സൂചനകളേയും സാധൂകരിക്കുന്നതാണ് ഇനി നമുക്ക് അടിസ്ഥാന വികാരങ്ങൾ ഏതൊക്കെയാണെന്നും അവയെ പ്രകടിപ്പിക്കുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന പേശീപ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം എക്മാൻ നിർവചിക്കുന്ന ഒന്നാമത്തെ സാർവത്രിക വികാരം സന്തോഷമാണ് അത് ഒരു വ്യക്തി സ്വയം കണ്ടെത്തുന്ന സ്നേഹം ഉല്ലാസം സംതൃപ്തി തുടങ്ങിയ അനുഭൂതികളുടെ അവലോകനവും ചുറ്റുപാടുകളുമായുള്ള പലതരം പോസിറ്റീവായ സമ്പർക്കങ്ങളിലൂടെ ഉണ്ടാകുന്നതുമാണ് ഈ ഭാഗത്തു പരാമർശിച്ചിരിക്കുന്ന ഗവേഷണ പഠനങ്ങൾ സന്തോഷമുള്ള മുഖത്ത് ഉണ്ടാകുന്ന പലതരം ഭാവങ്ങൾ തിരിച്ചറിഞ്ഞ വൂൾഫിന്റെയും മാസ്സിന്റെയും ആണ് പുഞ്ചിരി വിടർന്ന കണ്ണുകൾ ഉയർന്ന പുരികങ്ങൾ ഇവയൊക്കെയാണ് സന്തോഷം വെളിവാക്കുന്ന മുഖത്തെ ലക്ഷണങ്ങൾ എന്നിരുന്നാലും പൊതുവെ സന്തോഷം വെളിവാക്കുന്ന ഈ ഭാവങ്ങൾ മറ്റു വികാരങ്ങളെയും സൂചിപ്പിക്കാം സന്തോഷം എന്നതിൻറെ ഘടനയും ഘടകങ്ങളും യഥാർത്ഥത്തിൽ വളരെയധികം സങ്കീർണ്ണവും അതേസമയം ആത്മനിഷ്ഠവുമാണ് ഉദാഹരണത്തിന് ചില ആളുകളിൽ ലൌകികമായ സ്ഥാനമാണങ്ങളാണ് സന്തോഷത്തിന്റെ ഉപാധി എന്നാൽ മറ്റു ചിലരിൽ അലൌകികമായ നേട്ടങ്ങളായിരിക്കും ശരിയായ സന്തോഷം ഉണ്ടാക്കുക അതായത് സന്തോഷം എന്ന വികാരം സാന്ദർഭികമാണ് എങ്കിൽപ്പോലും മേൽപ്പറഞ്ഞ ശാരീരികസൂചനകളിലൂടെ നമുക്ക് ഈ വികാരം തിരിച്ചറിയാൻ സാധിക്കും സാർവത്രികം എന്ന് വിശേഷിപ്പിക്കുന്ന രണ്ടാമത്തെ വികാരം സങ്കടം അഥവാ ദുഃഖം ആണ് വാസനാപ്രേരിതമായ ഒരു കൂട്ടം ചോദനകളിൽ നിന്നാണ് ഈ വികാരം ഉണ്ടാകുന്നത് ഉദാഹരണത്തിന് ഒരു നഷ്ടം വ്യക്തിപരമായ വേദന ക്ലേശം തുടങ്ങിയവയിൽ പെടുമ്പോഴൊക്കെ എന്നാലും ഇതിനോട് ചേർന്നുവരുന്ന വികാരാവസ്ഥ താൽക്കാലികം മാത്രമാണെന്നും മനസിലാക്കേണ്ടതുണ്ട് വളരെനാൾ നീണ്ടുനിൽക്കുന്ന ദുഃഖവും അസംതൃപ്തിയും വിഷാദം തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളുടെ ഫലമായി ഉണ്ടാകുന്നതുമാവാം ഒരു പ്രത്യേക സന്ദർഭത്തിലുണ്ടാകുന്ന പ്രത്യേക വികാരത്തെയാണ് സങ്കടം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പലതരത്തിൽ നടത്തപ്പെട്ട ഗവേഷണപഠനങ്ങളിലും ഏതെങ്കിലും രീതിയിലുള്ള ലിംഗപരമായ പക്ഷപാതങ്ങളും സാമൂഹികമായി നിലനിന്നുപോരുന്ന ലിംഗഭേദ വ്യവസ്ഥിതിയോടുള്ള ചായ്വും പ്രകടമാണ് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഉദാഹരണനത്തിന് 2002 ൽ അഡോൾഫ്സ് നടത്തിയ പഠനത്തിൽ വിഷാദം പുരുഷന്മാരെയപേക്ഷിച്ചു സ്ത്രീകളിൽ കൂടുതൽ പ്രകടമാക്കപ്പെടുന്നു എന്ന് പരാമർശിച്ചിരുന്നു ഇത്തരത്തിലുള്ള പഠനങ്ങളിൽ ലിംഗഭേദത്തെക്കുറിച്ചുള്ള യാഥാർഥ്യങ്ങളും വാർപ്പുമാതൃകകളെക്കുറിച്ചും മറ്റും വസ്തുനിഷ്ഠമായി വീക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയാനാകും എക്മാൻ ഫ്രീസെൻ ടോംകിൻസ് എന്നിവർ വിഷാദത്തിന്റെ ലക്ഷണങ്ങൾ വിവരിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് തൂങ്ങിയ കൺപോളകൾ കൂമ്പിയ ചുണ്ടുകൾ കണ്ണുനീർ ഉരുണ്ടുകൂടുക വായയുടെ കോണുകൾ താഴേയ്ക്ക് തൂങ്ങുക തുടങ്ങിയവ ഈ പരാമർശിക്കപ്പെട്ട പ്രകടനങ്ങളുടെ കൂടെ കണ്ണുകൾക്കും വായയ്ക്കും ചുറ്റുമുള്ള പേശികളുടെ സങ്കോചവും ഉണ്ടാകുന്നു അതോടൊപ്പം കണ്ണുനീർ ഉണ്ടാവുകയും കണ്ണുകൾക്ക് ചുറ്റുമുള്ള ഓർബിക്യൂലറിസ് ഒക്യൂലി എന്ന പേരിലുള്ള പേശികൾ സങ്കോചിച്ചുകൊണ്ട് കൺപോളകൾ കൂമ്പി അടയാൻ ഇടയാക്കുകയും ചെയ്യുന്നു മൂന്നാമത്തെ സാർവത്രിക വികാരം ഭയമാണ് എല്ലാവര്ക്കും അറിയുന്നപോലെ വളരെ പരിതാപകരമായ ഒരു വികാരമാണിത് യഥാർത്ഥമോ സങ്കല്പിക്കാമോ ആയ അപായസൂചനയോ അപകടമോ വേദനയോ ഉണ്ടാകുമ്പോഴുള്ള പ്രതികരണമായാണ് ഭയം ഉണ്ടാകുന്നത് പ്രത്യക്ഷമായി പല തരത്തിലുള്ള പ്രതികരണങ്ങൾ ഭയം മൂലം മുഖത്ത് ഉണ്ടാവാം മേൽചുണ്ട് ഉയരുന്നതുമൂലം വായ മലർക്കെ തുറക്കുന്നത് ഭയത്തോടുള്ള ഒരു പ്രതികരണമാണ് രക്ഷപെടാനോ അല്ലെങ്കിൽ കുറച്ചധികം ജീവവായു ശ്വസിക്കാനോ ഉള്ള വ്യഗ്രതയാകാം ഈ പ്രതികരണത്തിന്റെ ഹേതു നെറ്റിയും പുരികങ്ങളും മുഖത്തിന്റെ നടുവിലേക്ക് ചുരുങ്ങിപ്പോവുകയും ചുണ്ടുകൾ വലിഞ്ഞുവരികയും ചെയ്യുന്നതും ഭയം പ്രകടമാക്കുന്ന ലക്ഷണങ്ങളാണ് പക്ഷെ നമ്മുടെ മുഖത്ത് പ്രകടമാകുന്ന ഭയം പലപ്പോഴും മറ്റു ചില ശാരീരിക സൂചനകളിലൂടെയും വെളിവാവുക സാധാരണമാണ് ഉദാഹരണത്തിന് ഹൃദയമിടിപ്പിന്റെ ഉയർന്ന വേഗത നാലാമത്തെ സാർവത്രിക വികാരം മ്ലേച്ഛമായ വികാരം എന്നറിയപ്പെടുന്ന ദേഷ്യമാണ് ഒരു ചെറിയ സ്വൈര്യക്കേട് മുതൽ തീവ്രമായ രോഷം വരെ ഇതിൽ പെടും ഇത് മറ്റു പല മോശം വ്യകരണങ്ങളോട് ചേർന്നുനിൽക്കുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് ഇച്ഛാഭംഗം മനോവ്യഥ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ലജ്ജിതനാവേണ്ടി വന്നതിന്റെ ഓർമ്മകൾ തുടങ്ങിയവ ഈ വികാരം പൊതുവെ മുഖത്ത് പ്രത്യക്ഷമാകുന്ന ഭാവപ്രകടനങ്ങളിലൂടെയാണ് വെളിവാകുന്നത് ദേഷ്യം ഉണ്ടാകുമ്പോൾ ഒരാളുടെ മുഖത്ത് സ്പഷ്ടമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയുന്നു പുരികങ്ങൾ താഴ്ന്നു നെറ്റി ചുളിഞ്ഞു വലിഞ്ഞു മുറുകി ഒരു പ്രത്യേക രീതിയിലുള്ള വായ ഇറുകിയ താടിയുമൊക്കെയാണ് ദേഷ്യത്തിൻറെ ലക്ഷണങ്ങൾ ആശ്ചര്യമാണ് അഞ്ചാമത്തെ സാർവത്രിക വികാരം ഇത് ആകസ്മികമായ അമ്പരപ്പ് മൂലം ഉണ്ടാവുന്നതാണ് ആശ്ചര്യത്തിനെ സൂചിപ്പിക്കുന്ന മുഖഭാവം ആകസ്മികതയെ പ്രകടമാക്കുന്നതായതുകൊണ്ട് ഇതിനോട് ചേർന്നുവരുന്ന മുഖഭാവങ്ങൾ നാടകീയവും നൈസർഗ്ഗികവുമാണ് ഇതൊരു അതിശയോക്തി കലർന്ന വികാരമായതിനാൽ ഇതിനെ പ്രകടമാകുന്ന മുഖഭാവങ്ങളിലും പലരീതികളിൽ ആ അതിശയോക്തിപരത കാണാനാകും ഉയർന്നു വളഞ്ഞ പുരികങ്ങളും ചിലപ്പോഴൊക്കെ ചുളിഞ്ഞ നെറ്റിയും തുറന്നുപോയ വായയും ആശ്ചര്യത്തിനൊപ്പം കാണാനാകും ആറാമത്തെ സാർവത്രിക വികാരം ജുഗുപ്സയാണ് ഏതെങ്കിലും വ്യക്തിയായോടോ വസ്തുവിനോടോ തോന്നുന്ന ഇഷ്ടക്കേട് നമ്മുടെ ചുറ്റുപാടുകളോടോ എന്തെങ്കിലും വസ്തുവിനോടോ തോന്നുന്ന വെറുപ്പ് അല്ലെങ്കിൽ അലോസരം ഇവയൊക്കെക്കൊണ്ട് ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്ന തീവ്രമായ ഒരു തരം അപ്രീതിയാണിത് ചുളിഞ്ഞ മൂക്കും നെറ്റിയും അമർത്തി ചേർത്തടച്ച ചുണ്ടുകൾ തുടങ്ങിയവയാണ് ജുഗുപ്സായുടെ ബാഹ്യ പ്രകടനങ്ങൾ മൂക്ക് ചുളിക്കാനും മേൽചുണ്ട് ഉയർത്താനും സഹായിക്കുന്ന മുഖത്തുള്ള ലെവറ്റോർ ലബൈ സുപ്പീരിയോറിസ് എന്ന പേശിയിലാണ് ജുഗുപ്സ പ്രകടമാക്കാനുള്ള മുഖപേശീസങ്കോചം പ്രധാനമായും നടക്കുന്നത് സാർവത്രിക വികാരങ്ങളുടെ കൂട്ടത്തിൽ പോൾ എക്മാൻ ചേർത്ത ഏഴാമത്തെ വികാരം അവജ്ഞ ആണ് പുച്ഛം കലർന്ന ചുണ്ട് ഒരു വശത്തേയ്ക് കോട്ടിയുള്ള ചിരിയിലൂടെയാണ് പലപ്പോഴും പുച്ഛം പ്രകടമാകാറുള്ളത് അവജ്ഞ ഒരു പ്രധാനപ്പെട്ട സൂക്ഷ്മവികാരംകൂടിയാണ് മുഖഭാവങ്ങളുടെയും ശരീരത്തിൻറെ അംഗവിന്യാസത്തിന്റെയും സങ്കലത്തിലേയ്ക്ക് വ്യാപിച്ച പുതിയ പഠനങ്ങൾ അഹങ്കാരത്തിന്റെയും ലജ്ജയുടെയും സമാനമായ പ്രകടന മാതൃകകൾ സംസ്കാരാന്തരമായിപ്പോലും കാണപ്പെടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരം പഠനങ്ങളുടെ ഫലമായി സാർവത്രികമായി കണക്കാക്കപ്പെടാവുന്ന ഇനിയുമേറെ വികാരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സമീപഭാവിയിൽ നമുക്ക് ലഭിക്കുവാനുള്ള സാദ്ധ്യതകൾ ഏറെയാണ് ഈ ലിസ്റ്റിൽ എക്മാനും ഫ്രീസെനും പ്രസ്താവിച്ചതുപോലയുള്ള മുഖഭാവങ്ങളെക്കുറിച്ചുള്ള സൂചകങ്ങൾ കാണുവാനാകും മുഖഭാവങ്ങളെക്കുറിച്ചും ചലനസൂചനകളെക്കുറിച്ചും രേഖപ്പെടുത്തുന്നതിനോടൊപ്പം മുഖത്തു ഓരോ പ്രത്യേക ഭാവം ഉണ്ടാക്കുവാനുപയോഗിക്കുന്ന പേശികളുടെ എണ്ണവും ഈ മൂന്ന് കോളങ്ങളിൽ ചേർത്തിട്ടുണ്ട് എക്മാനും ഫ്രീസെനും നടത്തിയ ഈ അടിസ്ഥാന പഠനങ്ങളെ അധികരിച്ചുകൊണ്ട് റോബോട്ടിക്സിലും മറ്റുമുണ്ടായ ഏറ്റവും പുതിയ സാങ്കേതികമുന്നേറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നത് അവരുടെ ഗവേഷണ പഠനങ്ങളുടെ പ്രാധാന്യം വെളിപ്പെടുത്തുന്നതാണ് പിന്നീട് നമുക്ക് ഈ സ്ലൈഡിലേക്ക് മടങ്ങിവരാം ഏഴ് സാർവത്രിക വികാരങ്ങളുടെ മുഖഭാവങ്ങളെ വളരെ ലഖുവായി വിശദീകരിക്കുന്ന രസകരമായ ഒരു വീഡിയോ ആണിത് പഠനങ്ങളിൽ പതിനായിരത്തിലധികം സൂക്ഷ്മവികാരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഈ ഏഴ് അടിസ്ഥാന വികാരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ സൂക്ഷമഭാവം ക്രോധമാണ് താഴേക്കു വളഞ്ഞ പുരികങ്ങൾ മുറുകെ ചേർത്ത് പിടിച്ച ചുണ്ടുകൾ എന്നിവയൊക്കെയാണ് പൊതുവെ ദേഷ്യം പ്രകടമാക്കുന്നത് ഒരു ബാറിലോ അങ്ങനെ എവിടെയെങ്കിലും പരസ്പരം വഴക്കടിക്കാൻ നിൽക്കുന്ന രണ്ടു മനുഷ്യരെ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഈ സൂക്ഷ്മഭാവം കാണുവാനാകും ചിലപ്പോഴവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനായി താടി കുറച്ച് ഉയർത്തിപ്പിടിക്കുന്നതും നിങ്ങൾക്ക് കാണാം എന്നാൽ താടി ഉയർത്തിപ്പിടിക്കുന്നത് പ്രകോപനത്തിൻറെ സൂചനയും കൂടിയാണ് പുരികങ്ങൾക്കിടയിൽ നെടുകെ പ്രത്യക്ഷപ്പെടുന്ന രേഖകളാണ് ക്രോധം തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല ഉപാധി നിങ്ങൾ ആർക്കെങ്കിലും നിർദ്ദേശങ്ങൾ നൽകുകയോ അതല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ആരായുകയോ ആണെങ്കിൽ ഈ സൂചനകൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് രണ്ടാമത്തെത് ഭയം ഭയമുണ്ടാകുമ്പോൾ കണ്ണിൻറെ വെള്ള കൂടുതൽ വെളിവാകുന്നതായി കാണാം ചിലപ്പോൾ പുരികങ്ങൾ ഉയർന്നിരിക്കും അതോടൊപ്പം ശബ്ദമുണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ കൂടുതൽ ജീവവായു ഉള്ളിലേക്കെടുക്കുന്നതിനോ വായ ചെറുതായി തുറന്നുവെയ്ക്കുകയും ചെയ്യും പരിണാമപ്രക്രിയയുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടിൽ ഇതെല്ലാം ചേർത്തുവായിക്കുന്നത് അർത്ഥപൂർണമാണ് നിങ്ങളുടെ കണ്ണുകൾ കൂടുതൽ വെളിച്ചം ആഗിരണം ചെയ്യുന്നതിനായി പ്രാപിക്കുന്നതോടൊപ്പം നിങ്ങളുടെ വായ പൊരുതുക അല്ലെങ്കിൽ രക്ഷപ്പെടുക എന്ന സിദ്ധാന്തപ്രകാരം ശബ്ദമുണ്ടാകാനോ കൂടുതൽ വായു ശ്വസിക്കാനോ ആയി കൂടുതൽ തുറക്കുന്നു നിങ്ങൾ ആരെയെങ്കിലും ഭയപ്പെടുത്തിയാലോ അല്ലെങ്കിൽ ഭയമുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യമാ അവരോട് പറയുകയോ ചെയ്താൽ ഈ ഭാവം അവരുടെ മുഖത്തു കാണാനാകും മൂന്നാമത്തേത് സന്തോഷം സന്തോഷം ഒരു പ്രധാനപ്പെട്ട സൂക്ഷ്മഭാവമാണ് അടിസ്ഥാനപരമായി സന്തോഷമെന്നത് ഒരു വലിയ പുഞ്ചിരി തന്നെയാണ് ഒരു ചിരി സത്യസന്ധമാണോ അല്ലയോ എന്ന് കണ്ണുകളുടെ ചുറ്റും ഉണ്ടാകുന്ന ചുലുക്കങ്ങൾ പോലെയുള്ള രേഖകൾ കണ്ടു പറയാനാകും ചിലരിതിനെ കാക്കയുടെ കാലുകൾ എന്ന് പറയാറുണ്ട് വാസ്തവത്തിൽ പത്തിലൊരാൾക്ക് മാത്രമേ ഈ രേഖകൾ കൃത്രിമമായി ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളു അങ്ങനെയാകുമ്പോൾ ഈ രേഖകളാണ് ഒരാളുടെ ചിരി കൃത്രിമമാണോ സത്യസന്ധമായതാണോ എന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗം നിങ്ങൾ ഒരാളോട് ഒരു സന്തോഷ വാർത്ത പങ്കുവയ്ക്കുമ്പോൾ അവരുടെ പ്രതികരണം അറിയുക എന്നത് വളരെ പ്രധാനമാണ് നിങ്ങൾ മുമ്പത്തേതിലും മുന്നേറ്റമുണ്ടാക്കി എന്നത് അവരെ സത്യസന്ധമായി സന്തോഷിപ്പിക്കുന്നുണ്ടോ അതോ നിങ്ങളെ കാണിക്കാനായി അവർ അങ്ങനെ ഭാവിക്കുകയാണോ എന്ന് മനസിലാക്കുന്നതിനായിട്ടാണ് ഇത് നിങ്ങളൊരു പെൺകുട്ടിയോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണെങ്കിലും ഇത് പ്രയോജനപ്പെട്ടേക്കാം അതുപറഞ്ഞപോഴാണ് ഒരു നല്ല സംഭാഷണത്തിന് വേണ്ടുന്ന ഒരിക്കലും പിഴയ്ക്കാത്ത ചില തുടക്കങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കൂടെ ആകർഷണത്തിന്റെ മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ പാഠവും വിവരങ്ങൾക്ക് ലിങ്ക് നോക്കാം നാലാമത്തേത് അവജ്ഞയാണ് അടിസ്ഥാനപരമായി വെറുപ്പ് കുറ്റബോധം അസന്തുഷ്ടി എന്നിങ്ങനെയുള്ളതുകൊണ്ട് അവജ്ഞയും എളുപ്പം മനസിലാക്കാവുന്നതാണ് ലളിതമായി പറയുകയാണെങ്കിൽ ചുണ്ടുകളുടെ ഒരു കോൺ മുകളിലേക്കാക്കി നിൽക്കുന്നത് അവജ്ഞയാണ് ജോൺ ഗോട്ട്മാൻ പങ്കാളികളിൽ നടത്തിയ ഒരു പഠനത്തിൽ കണ്ടെത്തിയത് അവജ്ഞയെ സൂച്ചിപ്പിക്കുന്ന സൂക്ഷമവികാരം പ്രകടമായിയിരിക്കുന്നവരിൽ ഡിവോഴ്സ് നടക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് നിങ്ങളോട് അടുപ്പമുള്ള ആരിലെങ്കിലും ചുണ്ടിന്റെ ഒരു വശം കൊടിയതുപോലെയുള്ള മുഖ ഭാവവും നിങ്ങൾ കാണുന്നുവെങ്കിൽ അവരുമായുള്ള പ്രശ്നവും വഷളാകുംമുമ്പ് സംസാരിച്ചു തീർക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത് ഒരാളോടുള്ള വെറുപ്പ് തരണം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു വികാരമാണ് പ്ര്യത്യേകിച്ചും വളരെ അടുപ്പമുള്ള രണ്ടു പേരുടെ ഇടയിലാണെങ്കിൽ അഞ്ചാമത്തേത് ആശ്ചര്യമാണ് പുരികങ്ങൾ ഉയർത്തുന്നതും വായ തുറന്നു പോകുന്നതുമൊക്കെ ചേർന്ന് ഭയത്തോട് സമാനമായ പ്രകടരൂപമുള്ള വികാരമാണ് ആശ്ചര്യം ഇവ തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം ഇതാണ് ഭയം മൂലം വായ മുറുകുമ്പോൾ ആശ്ചര്യം മൂലം വായ അയയുന്നു ഇത് വെറുതെ നോക്കി വ്യത്യാസം മനസിലാക്കുവാൻ പ്രയാസം തന്നെയാണ് എന്നാൽ ആശ്ചര്യത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട് ആശ്ചര്യപ്പെടുമ്പോൾ കൺപുരികങ്ങൾ വളഞ്ഞതായിക്കാണുമ്പോൾ ഭയത്തിൽ പുരികങ്ങൾ പൊതുവെ നിവർന്നാണ് കാണപ്പെടുന്നത് നെറ്റിയിലുള്ള വ്യത്യസ്തങ്ങളായ പേശികൾ ഉപയോഗിക്കുന്നതിനാലാണ് ഈ വ്യത്യാസം ഇവ തമ്മിലുള്ള വ്യത്യാസം മനസിലാക്കുന്നത് അതിപ്രധാനമാണ് നിങ്ങൾ ഒരാളോട് ഒരു രഹസ്യത്തിനെക്കുറിച്ചു ചോദിക്കുമ്പോൾ ഈ ലക്ഷണങ്ങൾ നോക്കി അവർക്കത് നേരത്തെ അറിയാമായിരുന്നോ എന്ന് മനസ്സിലാക്കാനാകും ചിലപ്പോൾ അവരെ ആരെങ്കിലും പറ്റിക്കുകയായിരുന്നു എന്ന് അവർക്ക് നേരത്തെ അറിയാമായിരുന്നിരിക്കാം അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തക ഗർഭിണി ആണെന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് നിങ്ങൾ അവരെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നില്ല ആറാമത്തെത് ദുഖമാണ് കപടമായി പ്രകടിപ്പിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സൂക്ഷ്മ ഭാവമാണ് ദുഃഖം നെറ്റിചുളിക്കാൻ ഉപയോഗിക്കുന്നത്ര പേശികളെ വേണ്ട ചിരിക്കാൻ ഇതിനർത്ഥം ദുഃഖം ഒരു സൂക്ഷ്മഭാവമായി കാണപ്പെട്ടാൽ അത് സത്യം തന്നെയാവാനാണ് സാധ്യത ഒരാൾ ദുഖിച്ചിരിക്കുമ്പോൾ അയാളുടെ ചുണ്ടിന്റെ കോണുകൾ താഴേയ്ക്ക് വളയുന്നു അങ്ങനെ അയാളുടെ മുഖം ചുളിയുന്നു സാധാരണഗതിയിൽ ദുഃഖം ഒരു നീളമേറിയ മുഖഭാഗമാണ് ചിലപ്പോ ഏതാനും സെക്കന്ഡുകളെക്കാൾ നീണ്ടതായേക്കാം അത് മൂക്കിനോട് ചേർന്ന പുരികത്തിന്റെ ഭാഗങ്ങൾ കൂടുതൽ അടുക്കുകയും അവിടെ നെടുകെയുള്ള രേഖകൾ ഉണ്ടാവുകയും ചെയ്യുന്നു അതുകൊണ്ടൊക്കെത്തന്നെ കപടമായി ഭാവിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു വികാരമാണ് ദുഃഖം ഏഴാമത് ജുഗുപ്സ വിസർജ്യം മണക്കുമ്പോഴോ അല്ലെങ്കിൽ വളരെ മോശമായ ഒരു തമാശ കേൾക്കുമ്പോഴോ നിങ്ങൾക്കുണ്ടാകുന്ന വികാരമാണിത് മേൽചുണ്ടിൻറെ ഭാഗം മുകളിലേയ്ക്ക് ഉയരുന്നതുമൂലം മൂക്ക് കുറച്ചു വിടർന്നു കാണുന്നതാണ് സാധാരണയായി ഒരാളുടെ പുരികങ്ങൾ കുറച്ചു മുറുകിയിരിക്കുന്നതായി കാണാം ജുഗുപ്സ വളരെ പ്രധാനപ്പെട്ടതാണ് എന്തെന്നാൽ ചിലപ്പോ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിലാവും നിങ്ങളിത് കാണുക നിങ്ങൾ നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം മറ്റൊരാളോട് സ്വയം ചോദിക്കുമ്പോൾ അവരുടെ മുഖത്തു ചിലപ്പോൾ ജുഗുപ്സ കണ്ടേക്കാം നിങ്ങൾ പറയുന്ന ഒരു കാര്യം ഒരാൾക്ക് സത്യസന്ധമായിത്തന്നെ താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് മനസിലാക്കാനാകും അതായത് ഉദാഹരണത്തിന് ഒരാൾ പ്രത്യക്ഷത്തിലല്ലെങ്കിലും ചിന്താപരമായി ഒരു വംശീയവാദിയാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസിലാക്കാൻ സാധിച്ചേക്കും ഇവയൊക്കെയാണ് ഏഴു പ്രധാനപ്പെട്ട സൂക്ഷ്മവികാരങ്ങൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ മുഖഭാവങ്ങൾ സാർവത്രികമാണോ അതോ നമ്മുടെ സാംസ്കാരിക ചുറ്റുപാടുകൾ ചേർന്ന് നിര്മിക്കുന്നതാണോ എന്നുള്ള തർക്കങ്ങളെക്കുറിച്ചു കാണുകയുണ്ടായി ആ തർക്കം തുടർന്നുകൊണ്ടിരിക്കുന്നു മുഖഭാവങ്ങളുടെ സാർവത്രികതയേക്കുറിച്ചുള്ള പഠനങ്ങൾ ആരംഭിച്ചത് എക്മാനും ഫ്രീസെനുമാണ് പിന്നീട് അവർക്ക് വളരെ വലിയ പിന്തുണയും ലഭിക്കുകയുണ്ടായി അതേസമയം മുഖഭാവങ്ങൾ സാമൂഹികമായി ആർജിക്കപ്പെടുന്നതാണെന്നുള്ള കാഴ്ചപ്പാട് പ്രധാനമായും പ്രസ്താവിച്ചിട്ടുള്ളത് മാർഗരറ്റ് മീഡ് എന്നിവരാണ് ഈ ആശയത്തിനും വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ട് ഗവേഷണങ്ങളുടെ ആദിമഘട്ടത്തിൽ സഹജാവബോധം എന്നോ ജീവശാസ്ത്രപരമെന്നോ മനുഷ്യവംശത്തിൻ്റെ പൊതുസ്വഭാവമെന്നോ കരുതിപ്പോന്ന ഈ കാര്യങ്ങൾളേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നരവംശശാസ്ത്രത്തിലും മനുഷ്യൻറെ പെരുമാറ്റം സംബന്ധിച്ചുള്ള ഗവേഷണങ്ങളിലും വെളിവാക്കപ്പെടുന്നതായിക്കാണാം ഇവയല്ലാതെ പലരും കണ്ടെത്തിയിട്ടുള്ള ചില അംഗചലനങ്ങളുണ്ട് ഉദാഹരണത്തിന് ഉവ്വ് അല്ലെങ്കിൽ അല്ല എന്ന് സൂചിപ്പിക്കുന്ന ചലനങ്ങൾ മുൻപ് വിചാരിച്ചിരുന്നത് തല ആട്ടുന്നത് ഉവ്വ് എന്നുള്ളത് സൂചിപ്പിക്കുവാൻ സാർവത്രികമായി ഉപയോഗിക്കുന്ന അംഗചലനമാണ് എന്നാണ് എന്നാൽ ചില സമൂഹങ്ങളിലും സംസ്കാരങ്ങളിലും തലയാട്ടാൽ നേരെ വിപരീതമാണ് സൂചിപ്പിക്കുന്നത് അതേസമയം ചില അഭിവാദന രീതികളും ചിലപ്പോൾ ഭീതിദമായവ പോലും സാർവത്രികമാണെന്നു കരുതപ്പെട്ടിരുന്നു അതേസമയം നിഷേധാത്മകമായ വികാരങ്ങളുടെ പ്രകടനം പോലും സാർവത്രികമല്ല ജപ്പാനിലും ചില ആഫ്രിക്കൻ സമൂഹങ്ങളിലും നെഗറ്റീവ് ആയ വിചാരവികാരണങ്ങൾ പ്രകടിപ്പിക്കുന്നതിനു പകരം ചിരികൾകൊണ്ട് അവ മറച്ചു വയ്ക്കുന്ന ഒരു രീതി പിന്തുടർന്നു പോരുന്നു മറുപക്ഷത്തുള്ള വ്യക്തിക്ക് വിഷാദത്തിൻ്റെ ഒരു ലാഞ്ഛനപോലും ലഭിക്കരുതെന്നുള്ള ചിന്തയിൽനിന്നാണ് ഈ പ്രവൃത്തി ഉണ്ടാകുന്നത് ലളിതമായി പറഞ്ഞാൽ നമ്മുടെ മുഖഭാവങ്ങളിൽ ഒരു പ്രത്യേക സന്ദേശം ഉൾക്കൊള്ളിച്ചു മറ്റൊരാൾക്ക് കൈമാറുകയും മറുവശത്തുള്ളയാൾ ആ സന്ദേശത്തിൻറെ അർഥം വ്യാഖ്യാനിച്ചെടുക്കുകയുമാണ് ചെയ്യുന്നത് അതായത് അടിസ്ഥാനപരമായി മുഖഭാവങ്ങൾ ഒരു തരം ആശയവിനിമയോപാധിയാണ് അതായത് മുഖഭാവങ്ങൾ അംഗചലനം ശരീര വിന്യാസം എന്നിവയെല്ലാം വാക്യേതര ആശയവിനിമയത്തിൻറെ ഉപാധികളാണ് കൃത്യമായ ആശയവിനിമയത്തിന് കൃത്യമായ വിവര കൈമാറ്റം ഉണ്ടാകണം നമ്മുടെ പെരുമാറ്റം സംബന്ധിച്ചുള്ള സാർവത്രികമെന്നു കരുത്തപ്പെട്ടിരുന്നതും എന്നാൽ പിൽക്കാല പഠനങ്ങളിൽ സാംസ്കാരികമായ വ്യതിയാനങ്ങൾ ഉണ്ട് എന്ന് തെളിയിക്കപ്പെടുകയും ചെയ്ത ചില വിവരങ്ങൾ രസകരമായി ഈ വിഡിയോയിൽ അവതരിപ്പിക്കുന്നു ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും വികാരങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ വികാരങ്ങൾ സചേതനമായ ചിന്തയിൽ നിന്നുമല്ലാതെ നൈസർഗികമായാണ് ജനിക്കുന്നത് നമ്മുടേതിന് വിഭിന്നമായ സംസകാരങ്ങളിൽ ജനിക്കുന്ന വികാരങ്ങളെ നാം എങ്ങനെ വ്യത്യസ്തമായി മനസിലാക്കുന്നു എന്ന് കാണുവാനായി നാം ഇക്കാര്യങ്ങൾ ഒരു ആഗോള കാഴ്ചപ്പാടിൽനിന്നും നോക്കിക്കാണേണ്ടിയിരിക്കുന്നു ചൈനയിലുള്ള ഒരു സന്തോഷവാനായ മനുഷ്യനും അമേരിക്കയിലുള്ള സന്തോഷവാനായ മനുഷ്യനും ഒരേ രീതിയിലാണ് ആ വികാരങ്ങൾ പ്രകടിപ്പിക്കുക എന്ന ലളിതയുക്തിയിൽ ചിന്തിച്ചാൽ ഇതൊരു വലിയ പ്രശ്നമായി നമുക്ക് അനുഭവപ്പെട്ടേക്കില്ല യഥാർത്ഥ കാര്യം ഇതാണ് മുൻപ് പറഞ്ഞ ഗവേഷണപഠനങ്ങളിലെ കണ്ടെത്തലുകൾ പോലെ വ്യത്യസ്ത സംസ്കാരങ്ങളിൽ പെട്ട മനുഷ്യർ എങ്ങനെയാണോ വികാരങ്ങളെ വ്യത്യസ്തമായി പ്രകടിപ്പിക്കുന്നത് അതേപോലെ വ്യത്യസ്ത രാജ്യങ്ങളിൽനിന്നുള്ള മനുഷ്യരും വികാരങ്ങളെ വ്യത്യസ്തമായി പ്രകടപ്പിക്കുന്നു ഉദാഹരണത്തിന് ചില രാജ്യങ്ങളിൽ ആളുകൾ മരിക്കുമ്പോൾ മരണാന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതും വ്യസനം പങ്കുവയ്ക്കുന്നതും വളരെ സാധാരണമാണ് പക്ഷെ മറ്റുചില രാജ്യങ്ങളിൽ നിർവികാരതയോടെ വ്യസനം പുറത്തുകാണിക്കാതെ നിൽക്കുന്ന രീതി പിന്തുടർന്നു പോരുന്നു ഈ സാംസ്കാരികാവസ്ഥയിൽ വികാരം പ്രകടമാക്കുന്നതോ ഒളിച്ചുവയ്ക്കുന്നതോ ആണ് ഒരു മനുഷ്യൻറെ മരണത്തിൽ ആ സംസ്കാരം പ്രകടിപ്പിക്കുന്നത് റ്റാഹീതീ ഒരാൾക്ക് ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ സങ്കടം പ്രകടിപ്പിക്കാതിരിക്കുന്നുവെന്നത് മനസിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാകാം എന്നാൽ റ്റാഹീതീയൻ ഭാഷയിൽ സങ്കടത്തിനെ സൂചിപ്പിക്കുന്ന വാക്ക് നിലനിൽക്കുന്നില്ല എന്നതിൽനിന്നും ആ വികാരം അവർ അങ്ങനെ കണ്ടു പ്രകടിപ്പിക്കാറില്ല എന്ന് അനുമാനിക്കാം വാക്കുകളുടെ അഭാവവും അതിലൂടെ തുല്യമായ വികാരപ്രകടനത്തിൻറെ അഭാവവും പല സംസ്കാരങ്ങളിലും കാണാനാകും ജപ്പാനിൽ വെല്ലുവിളികളെ അതിജീവിച്ചതിനാൽ പ്രശംസനീയനായ വ്യക്തിയെ സൂചിപ്പിക്കാൻ ഒറ്റപ്പദം ഉണ്ട് എന്നാൽ അമേരിക്കയിൽ അങ്ങനെ ഒരു ഒറ്റപ്പദം നിലനിൽക്കുന്നില്ല മറ്റൊരു ഉദാഹരണം എസ്കിമോകളുടെയും ചൈനക്കാരുടേയും സംസ്കാരത്തിൽ ഉത്കണ്ഠയെ സൂചിപ്പിക്കുന്ന പദം ഇല്ല അതിനാൽത്തന്നെ എസ്കിമോകൾക്കോ ചൈനക്കാർക്കോ ഉത്കണ്ഠ പ്രകടിപ്പിക്കുവാനോ മറ്റൊരാളിൽ പ്രകടമാകുന്നത് മനസിലാക്കുവാനോ ബുദ്ധിമുട്ടായിരിക്കും റേച്ചൽ ജാക്കിനെ ഉദ്ധരിച്ചുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു സംസ്കാരവും വികാരങ്ങളെ പ്രകടമാക്കുന്ന മുഖഭാവങ്ങളും എന്ന തലക്കെട്ടിൽ 2013 ൽ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ അവർ ഇപ്രകാരം ഒരു അതിപ്രധാനമായ കാര്യം പ്രസ്താവിക്കുന്നു ഇത്തരുണത്തിൽ മുഖഭാവങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇത്തരമൊരു പ്രത്യേക വിഷയത്തിൽ ഒതുക്കാതെ കുറച്ചധികം വിശാലമാക്കേണ്ടതുണ്ട് പരസ്പരബന്ധിതമല്ല എന്ന് സമ്പ്രദായികമായി കരുതിപ്പോന്നിരുന്ന വികാരവിനിമയത്തെക്കുറിച്ചുള്ള പഠനശാഖകൾ തമ്മിലുള്ള പൊരുത്തങ്ങളെക്കുറിച്ചു കൂടുതൽ വെളിച്ചം വീശുന്ന പഠനങ്ങൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുമുണ്ട് ഉദാഹരണത്തിന് എഞ്ചിനീയറിംഗ് റോബോട്ടിസ് കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ മേഖലകളിൽ ഇപ്പോൾ മുഖഭാവങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നു തത്ഫലമായി അറിവ് മാത്രമല്ല വ്യത്യസ്ത മേഖലകളിൽ നിന്നുമുള്ള സാങ്കേതികവിദ്യകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മനുഷ്യൻറെ മുഖഭാവനകളിക്കൂടിയുള്ള വികാരവിനിമയത്തെക്കുറിച്ചുള്ള ആധുനിക പഠനങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു കഴിഞ്ഞുപോയ ഒരു സ്ലൈഡിൽ ഞാൻ എഴുതിയിരുന്നതുപോലെ എക്മാനും ഫ്രീസെനും മുഖഭാവങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള സൂച്ചനകളെക്കുറിച്ചു പറയുന്നു സമകാലീന ലോകത്തിലെ സംശയഹേതുവല്ലാത്ത വിഷ്വലുകളും അനിമേഷൻ വീഡിയോകളും മറ്റുമുണ്ടാക്കുവാൻ ഈ സൂചനകൾ അതീവ ഗുണകരമാകുന്നു എക്മാൻറെയും മറ്റും അടിസ്ഥാന കണ്ടുപിടുത്തങ്ങൾ ജുഗുപ്സയും ക്രോധവും മനസിലാക്കുവാനുള്ള മാര്ഗങ്ങളായി ഉപയോഗിച്ചു വരുന്നുവെന്ന് ഈ പഠനങ്ങളിലൂടെ നമുക്ക് മനസിലാക്കാം ഈ കണ്ടുപിടുത്തങ്ങൾത്തന്നെയാണ് അനിമേഷൻ ചിത്രങ്ങളിലും മറ്റും ഈ വികാരങ്ങൾ നമ്മളിലേക്കെത്തിക്കുവാൻ പാകത്തിനുള്ള മുഖഭാവങ്ങൾ രൂപീകരിക്കുവാനുള്ള അടിസ്ഥാനമായി ഉപയോഗിക്കുന്നത് മുഖഭാവങ്ങളിൽ പ്രകടമാകുന്ന മനുഷ്യവികാരങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ നാം നേരിടേണ്ടി വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ സമകാലീന സാങ്കേതിക വികാസങ്ങളുമായി ബന്ധപ്പെട്ടവയാണ് റോബോട്ടുകളും മറ്റു ഡിജിറ്റൽ അവതാരങ്ങളും സാർവത്രികമായി മനസിലാക്കപ്പെടുന്ന ഒരു കൂട്ടം നിശ്ചിത മുഖഭാവങ്ങളുമായിട്ടാണോ ഡിസൈൻ ചെയ്യപ്പെടേണ്ടത് അതോ ഓരോ സംസ്കാരത്തിലേയും പ്രത്യേകതകൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രത്യേക വികാരങ്ങൾ പ്രകടമാക്കാൻ പാകത്തിനാണോ അവയെ ഉണ്ടാക്കേണ്ടത് ഇത്തരം ചോദ്യങ്ങൾക്കു മറുപടിയുണ്ടാവാൻ മനുഷ്യൻറെ ആശയവിനിമയത്തെക്കുറിച്ചും സാമൂഹിക സമ്പർക്കത്തെക്കുറിച്ചും വിവരങ്ങൾ മനസിലാകുന്നതിനെക്കുറിച്ചും ജ്ഞാനസമ്പാദനത്തെക്കുറിച്ചും ഒക്കെ വിശാലമായ അറിവുണ്ടാകണം അതിനാൽത്തന്നെ വാക്യേതരമായ ആശയവിനിമയത്തെക്കുറിച്ചുള്ള ഗവേഷണ പഠനങ്ങൾ വളരെയധികം അർത്ഥസമ്പുഷ്ടമായതായി കാണാം അടുത്ത ഭാഗത്ത് സൂക്ഷ്മവും സ്ഥൂലവുമായ മുഖഭാവങ്ങളെക്കുറിച്ചുള്ള പഠനം തുടരാം